ആന്റിനകളെ സംബന്ധിച്ച ഈ എൻപിടിഎൽ അദ്ധ്യാപനത്തിലേക്ക് സ്വാഗതം ഇന്നു നമ്മൾ കുറച്ചുകൂടി വികസിതമായ വിഷയം കാണും ആദ്യം നമ്മൾ അറേ പാറ്റേൺ സമന്വയം കാണും യഥാർത്ഥത്തിൽ നമ്മളൾ അറേ ആന്റിനകൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ കണ്ടത് ഏകമാന ആന്റിനകൾ ആയിരുന്നു ആദ്യം നമ്മൾ ദ്വിമാന ആൻറിനകൾ കാണും തുടർന്ന് ആൻറിന ശ്രേണികളുടെ രൂപകല്പനയിൽ സമന്വയ നടപടിക്രമങ്ങളുടെ ആവശ്യത്തെക്കുറിച്ച് കാണാം നമ്മൾ വളരെ ആഴത്തിലേക്ക് പോകുന്നില്ലെങ്കിലും അത് നമുക്ക് കാണുവാൻ ശ്രമിക്കാം ഞാനത് വരയ്ക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ നിങ്ങൾ ആന്റിനയെ സംബന്ധിച്ച് പഠിച്ചതെല്ലാം ഉപയോഗിച്ച് ആൻറിന സമന്വയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അടിത്തറ വച്ച് നിങ്ങൾക്ക് മുൻപോട്ടു പോകാം ആദ്യം നമുക്ക് ദ്വിമാന ശ്രേണി പരിഗണിക്കാം കാരണം അത് നമ്മൾ ഇതുവരെ പരിഗണിച്ചിട്ടില്ല നിങ്ങൾക്ക് ദ്വിമാന ശ്രേണി കാണാം ലളിതമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി ഇതിനെ x y അക്ഷങ്ങളിലുള്ള ഏകമാന ശ്രേണി ആയിട്ട് എടുത്തിരിക്കുന്നു ഈ ഏകമാന ശ്രേണി ഒന്നുകൂടി ആവർത്തിച്ചതാണ് മുൻപ് ഞാൻ പരിഗണിച്ചത് പോലെ N പ്ലസ് 1 അംഗങ്ങൾ x അക്ഷത്തിലുണ്ട് ഇന്നിപ്പോൾ അങ്ങനത്തെ M പ്ലസ് 1 ലീനിയർ ശ്രേണികളെ പരിഗണിക്കുന്നു അതുകൊണ്ട് ആകെ അംഗങ്ങളുടെ എണ്ണം N പ്ലസ് 1 ഗുണം M പ്ലസ് 1 ആണ് അവ യൂണിഫോം അകലത്തിൽ ആയതുകൊണ്ടാണ് യൂണിഫോം ശ്രേണി ആയിരിക്കുന്നത് അതുപോലെ എല്ലാ ഉത്തേജനങ്ങളും സമാനരീതിയിലുള്ള ഉത്തേജനങ്ങളാണ് പാറ്റേൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന സിദ്ധാന്തം ഉപയോഗിച്ച് ഈ ഒരു ശ്രേണിയെ M പ്ലസ് 1 ലീനിയർ അറകളുടെ ശ്രേണിയായി വിവരിച്ചിരിക്കുന്നു z അക്ഷത്തിലൂടെയുള്ള M പ്ലസ് 1 ലീനിയർ ശ്രേണിയുടെ അറേ ഫാക്ടറും x അക്ഷത്തിലൂടെയുള്ള N പ്ലസ് 1 അംഗങ്ങളുള്ള ശ്രേണിയുടെ അറേ ഫാക്ടറും ഗുണിക്കുന്നതാണ് ദ്വിമാന അറേ ഫാക്ടർ അതുകൊണ്ട് നമുക്ക് അറേ ഫാക്ടർ എഴുതാം ഇത് ദ്വിമാനം ആയതുകൊണ്ട് തീറ്റ ഫൈ എന്നിവയുടെ വാക്കുകളിൽ വിവരിക്കുന്ന സൈൻ കോണളവ് നമുക്ക് നേരിട്ട് എഴുതാം അവിടെ ar ക്രോസ് ax എന്നത് സൈൻ തീറ്റ കോസ് ഫൈ ആണെന്നും ar ക്രോസ് az കോസ് തീറ്റ ആണെന്നും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി പഴയതുപോലെ നമ്മൾ u പ്രതലത്തിലേക്ക് പോകുന്നു ഇവിടെ ഇത് ദ്വിമാനമായതുകൊണ്ട് നമ്മൾ രണ്ട് അളവുകൾ u ഉം v യും എടുക്കുന്നു പഴയതുപോലെ u എന്നത് k0d സൈൻ തീറ്റ കോസ് ഫൈ എന്നും u0 എന്നത് ആൽഫ d എന്നും എഴുതാം അതു പോലെ v എന്നത് k0d കോസ് തീറ്റ എന്നും v0 എന്നത് ബീറ്റ d എന്നും എഴുതാം I0 എന്ന ദ്വിമാന അറേ ഫാക്ടർ ആയി ഈ അറേ ഫാക്ടർ നമുക്ക് മാറ്റി എഴുതാം അതുകൊണ്ട് u സമം u0 ആകുമ്പോൾ ഈ അറേ ഫാക്ടർ ആണ് ഇതിൻറെ ആദ്യത്തെ പ്രിൻസിപ്പൽ മാക്സിമ u സമം u0 ആകുമ്പോൾ ഉള്ള ഈ ആദ്യത്തെ പ്രിൻസിപ്പൽ മാക്സിമയിൽ u സമം u0 ആകും അതുകൊണ്ട് ആ ദിശയിൽ ഇതിന് പരമാവധി പ്രസരണം ഉണ്ടായിരിക്കും ആൽഫയും ബീറ്റയും പൂജ്യം ആണെന്ന് നമ്മൾ എടുത്താൽ അതിനർത്ഥം ഫേസ് വ്യതിയാനം പുരോഗമിക്കുന്നു എന്നിട്ട് ഈ ദിശ പ്ലസ് മൈനസ് y ദിശയിലുള്ള ഉള്ള ശ്രേണിയുടെ പ്രതലത്തിന് ലംബമായിരിക്കുകയും ചെയ്യും ആൽഫയുടെയും ബീറ്റയുടെയും അനുയോജ്യമായ വിലയ്ക്ക് അനുസരിച്ച് ബീം ഏതു ദിശയിലേക്ക് വേണമെങ്കിലും തിരിച്ചു വിടാവുന്നതാണ് ഇത് ഫേസ്ഡ് അറേയുടെ ആശയം എന്ന് വിളിക്കപ്പെടുന്നു അതായത് എനിക്ക് ബീം ചലിപ്പിക്കണമെങ്കിൽ ആൽഫയ്ക്കും ബീറ്റയ്ക്കും വിലകൾ കൊടുത്തു ചെയ്യുവാൻ കഴിയും അതായത് ഏതൊക്കെ ദിശയിൽ എന്തൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും അതിനനുസരിച്ച് ആൽഫ ബീറ്റ എന്നിവയ്ക്ക് വില കൊടുക്കുക ഇലക്ട്രോണിക്സ് വഴിയായി ഇത് ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഇലക്ട്രോണിക് സ്കാനിങ് എന്ന് കൂടി പറയുന്നു വീതിയുള്ള വശങ്ങളോടു കൂടിയ ശ്രേണിയുടെ കാര്യത്തിൽ x y y z എന്നീ പ്രതലങ്ങളിലുള്ള ലോബിൻ്റെ ആൻഗുലാർ വിഡ്ത്ത് ലഭിക്കുന്നതിന് N പ്ലസ് 1 ഹരിക്കണം 2u സമം പ്ലസ് മൈനസ് പൈ എന്ന് ചെയ്താൽ മതി ഇത് x y പ്രതലത്തിലാണ് ഇനി y z പ്രതലത്തിൽ M പ്ലസ് 1 ഹരിക്കണം 2v സമം പ്ലസ് മൈനസ് പൈ ആണ് അതുകൊണ്ട് ലീനിയർ അറേയ്ക്കും നമ്മൾ ഇതുതന്നെയാണ് ചെയ്തത് അതുകൊണ്ട് x y പ്രതലത്തിലെ ബീം വിഡ്ത്ത് 2 ലാംഡ 0 ഹരിക്കണം N പ്ലസ് 1 d എന്ന് എളുപ്പത്തിൽ തെളിയിക്കാൻ കഴിയും അതോടൊപ്പം y z പ്രതലത്തിലെ ബീം വിഡ്ത്ത് രണ്ടു കാര്യങ്ങളിലും വീതിയുള്ള വശങ്ങളോടു കൂടിയ ശ്രേണിയുടെ കാര്യത്തിലെന്നപോലെ നൾ മുതൽ നൾ വരെയുള്ള ബീം വിഡ്ത്ത് ഇതാണ് ആ അക്ഷത്തിലെ ശ്രേണിയുടെ നീളത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും ഇത് അതേ വിധത്തിൽ ഹാഫ് പവർ ബീം വിഡ്ത്ത് എന്നത് x y പ്രതലത്തിൽ ഉള്ള ബീം വിഡ്ത്ത് 3dB അത് 2 65 ലാംഡ 0 ഹരിക്കണം N പ്ലസ് 1 പൈ d ആണെന്ന് തെളിയിക്കാൻ കഴിയും അതോടൊപ്പം y z പ്രതലത്തിൽ ഉള്ള ബീം വിഡ്ത്ത് 3dB 2 65 ലാംഡ 0 M പ്ലസ് 1 പൈ ഗുണിക്കണം d ആണ് ഇനി ഇതിൽ നിന്നും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും നമുക്ക് രണ്ടു പ്രതലങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ബീംവിഡ്ത്ത് ഉണ്ട് അതുകൊണ്ട് ഡയറക്റ്റിവിറ്റി കിട്ടും ദയവായി ശ്രദ്ധിക്കുക അവിടെ രണ്ട് ബീമുകൾ ഉണ്ട് അതുകൊണ്ട് ഡയറക്റ്റിവിറ്റി എന്നത് 4 പൈ ഹരിക്കണം 2 ഗുണിക്കണം ബീംവിഡ്ത്ത് 3dB ആ x y ഗുണിക്കണം ബീംവിഡ്ത്ത് 3dB ഗുണിക്കണം y z ആയിരിക്കും നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ അത് 8 83 N പ്ലസ് 1 M പ്ലസ് 1 d വർഗ്ഗം ഹരിക്കണം ലാംഡ 0 വർഗ്ഗം ആയിരിക്കും N പ്ലസ് 1 M പ്ലസ് 1 d വർഗ്ഗം എന്നത് മുഴുവൻ ശ്രേണിയുടെ വിസ്തീർണം ആണ് അതായത് 8 83 വിസ്തീർണ്ണം ഹരിക്കണം ലാംഡ 0 വർഗ്ഗം ആണ് ഭൌതികമായ വിസ്തീർണ്ണം ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിൻ്റെ വാക്കുകളിൽ എന്നതിനർത്ഥം ഭൌതികമായ ഇലക്ട്രിക്കൽ വിസ്തീർണ്ണം ഗുണിക്കണം ചില സ്ഥിരാംഗം എന്നാണ് അതുകൊണ്ട് ഡയറക്ടിവിറ്റി എന്നത് തരംഗദൈർഘ്യത്തിൻറെ വർഗ്ഗത്തിൽ അളന്ന വിസ്തീർണ്ണത്തിന് അനുപാതമായിട്ടായിരിക്കും ആൻറിന വിസ്തീർണത്തിൻ്റെ പൊതുവായ ഗുണവിശേഷം ആണിത് ഇക്കാര്യത്തിലും അത് വന്നു എന്നേയുള്ളൂ ഇനിയിപ്പോൾ ചോദ്യം എന്നത് ഇത് ദ്വിമാന ശ്രേണിയാണ് ആ സമയം നമ്മൾ അത് എടുത്തിട്ടില്ല പക്ഷേ പൊതുവായി ദ്വിമാന ശ്രേണികൾ വളരെ സാധാരണമാണ് നമുക്ക് ഒരു ഫേസ്ഡ് ശ്രേണി ആവശ്യമുണ്ടെങ്കിൽ നല്ലത് ദ്വിമാന ശ്രേണി ഉണ്ടായിരിക്കുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ വീണ്ടും ലീനിയർ അറേയിലേക്ക് പോവുകയാണ് തുടർന്ന് നമ്മൾക്ക് കുറച്ച് താൽപര്യമുണർത്തുന്ന കാര്യങ്ങൾ കാണാം തുല്യമായ അകലത്തിലുള്ള യൂണിഫോം ആയി ഉത്തേജിപ്പിക്കപ്പെട്ട ലീനിയർ ശ്രേണിയുടെ അറേ ഫാക്ടർ നമുക്ക് കാണാം നമുക്ക് കുറഞ്ഞ എണ്ണം ശ്രേണികൾ കാണാം ഇവിടെ മൂന്ന് അംഗങ്ങളുള്ള ശ്രേണി ഉണ്ടെന്ന് നമുക്ക് പറയാം ഇതാണ് അറേ ഫാക്ടർ അതു മാറുന്നുണ്ട് ഇവിടെ അത് സൈ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ ഇത് u ആണ് f ദയവായി ഇതു തിരുത്തുക ഇത് തെറ്റായി എഴുതിയതാണ് കാരണം നമ്മുടെ കാര്യങ്ങൾ എല്ലാം u അല്ലെങ്കിൽ u പ്ലസ് u0 ന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഉള്ളത് അതുപോലെ ഇത് u പ്ലസ് u0 ആണ് അക്ഷം അത്രേയുള്ളൂ അതുകൊണ്ട് ഇതാണ് മൂന്ന് അംഗങ്ങളുള്ള ശ്രേണിക്ക് വേണ്ടത് ഇനി ഞാൻ അഞ്ച് അംഗങ്ങളുള്ള ശ്രേണി ചെയ്യുകയാണെങ്കിൽ N സമം വീണ്ടും ഇത് N അല്ല N പ്ലസ് 1 സമം 5 ആണ് അതുകൊണ്ട് ഇതാണ് അറേ ഫാക്ടർ എന്ന് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് പഴയതുമായി ഇത് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ പഴയത് ഇവിടെ കാണിക്കട്ടെ N സമം 5 മായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ ബീംവിഡ്ത്ത് കുറഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം N സമം 10 എന്നതിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ ബീംവിഡ്ത്ത് വീണ്ടും കുറയുന്നത് നിങ്ങൾക്ക് കാണാം പക്ഷേ വശങ്ങളിലുള്ള ലോബുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഈ മൂന്ന് ഗ്രാഫുകളിൽനിന്ന് ഞാനവ ഒരിക്കൽ കൂടി കാണിക്കുകയാണ് നമുക്ക് വളരെയധികം നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ആദ്യത്തേത് N കൂടുന്നതിന് അനുസരിച്ച് നമ്മുടെ കാര്യത്തിൽ N പ്ലസ് 1 ആണ് നമ്മൾ എല്ലായിപ്പോഴും N പ്ലസ് 1 ഒരു ഒറ്റ സംഖ്യ ആയിട്ടാണ് പരിഗണിക്കുന്നത് കാരണം കോഡിനേറ്റിൽ ശ്രേണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി നമ്മൾ ഒരു കേന്ദ്ര അംഗത്തെ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് N പ്ലസ് 1 കൂടുന്നതിന് അനുസരിച്ച് പ്രധാന ലോബ് ഇടുങ്ങി വരുന്നു ഇതാണ് യൂണിഫോം ലീനിയർ ശ്രേണിയെ സംബന്ധിച്ച ഒരു നിരീക്ഷണം ഇത് എല്ലായ്പ്പോഴും ശരിയാണ് ഇനി വീണ്ടും N പ്ലസ് 1 കൂട്ടുകയാണെങ്കിൽ വശങ്ങളിലുള്ള ലോബുകളുടെ എണ്ണവും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ എത്രത്തോളം നമുക്ക് അത് പറയുവാൻ കഴിയുമോ തീർച്ചയായും മുഴുവൻ ലോബുകളുടെ എണ്ണം നമുക്ക് പറയുവാൻ കഴിയും മുഴുവൻ ലോബുകൾ എന്നതിനർത്ഥം ഒരു മെയിൻ ലോബ് പ്ലസ് വശങ്ങളിലുള്ള എല്ലാ ലോബുകളും എന്നാണ് F ന്റെ ഒരു ആവർത്തന പരിധിയിലുള്ള മുഴുവൻ ലോബുകളുടെയും എണ്ണം എന്നത് N ആണ് N പ്ലസ് 1 ആണ് നമ്മുടെ അംഗങ്ങളുടെ എണ്ണം അതിനർത്ഥം എനിക്ക് മൂന്ന് അംഗങ്ങളുടെ ശ്രേണി ഉണ്ടെങ്കിൽ എനിക്ക് രണ്ടു ലോബുകൾ ഉണ്ടായിരിക്കണം മൂന്ന് അംഗങ്ങളെ നിങ്ങൾ നോക്കൂ അതുകൊണ്ട് ഇതാണ് ഒരു മുഴുവൻ ലോബ് ഇതാണ് വേറൊന്ന് അങ്ങനെ രണ്ട് ലോബുകൾ അഞ്ചിലേക്ക് പോകു നമ്മൾക്ക് നാലെണ്ണം ഉണ്ടായിരിക്കും 1 2 3 4 പത്ത് 1 2 3 4 5 6 7 8 9 അതുകൊണ്ട് മുഴുവൻ ലോബുകളുടെ എണ്ണം എന്നത് N ആയിരിക്കും എന്നുള്ളത് ഒരു പൊതുവായ കാര്യമാണ് ഇനി മൂന്നാമത്തെ പ്രത്യേകത എന്നത് നിങ്ങൾ മൈനർ ലോബുകൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാണ് മൈനർ ലോബിൻ്റെ വീതി അത് 2 പൈ ഹരിക്കണം N പ്ലസ് 1 ആയിരിക്കും മേജർ ലോബ് അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് ലോബ് രണ്ടും മേജർ ലോബും അല്ലെങ്കിൽ മെയിൻ ലോബും ഗ്രേറ്റിംഗ് ലോബും മേജർ ലോബ് കൂടാതെ ഗ്രേറ്റിംഗ് ലോബ് വീതി എന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കും അതായത് 4 പൈ ഹരിക്കണം N പ്ലസ് 1 അതുകൊണ്ട് നിങ്ങൾ നോക്കൂ ആകെ എത്ര കാര്യങ്ങളുണ്ട് എനിക്കുള്ള 2 പൈ ഹരിക്കണം N പ്ലസ് 1 ഗുണിക്കണം ഒരു ആവർത്തന പരിധിയിലുള്ള N മൈനസ് 1 എന്ന് എനിക്ക് പറയുവാൻ കഴിയുമോ കാരണം ആകെമൊത്തം N മുഴുവൻ ലോബുകൾ ആണ് ഉള്ളത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് N മൈനസ് 1 വശങ്ങളിലുള്ള ലോബുകൾ പ്ലസ് 4 പൈ ഹരിക്കണം N പ്ലസ് 1 എന്താണിത് 2 പൈ ഹരിക്കണം N പ്ലസ് എന്നത് നിങ്ങൾക്ക് പൊതുവായി എടുക്കാൻ കഴിയും അത് നിങ്ങൾക്ക് N മൈനസ് 1 പ്ലസ് 2 നൽകും അതുകൊണ്ട് ഇത് N പ്ലസ് 1 ആണ് ഇത് 2 പൈ ആണ് അതോടൊപ്പം നമുക്ക് പറയാൻ കഴിയും F എന്നത് 2 പൈ പരിവൃത്തിയുള്ള ആവർത്തന ഫംങ്ഷനാണ് അതുകൊണ്ട് ഇതും പരിശോധിക്കാവുന്ന ഒരു കാര്യമാണ് എന്താണ് വശങ്ങളിലെ ലോബ് ലെവൽ എന്നതാണ് നാലാമത്തെ പ്രത്യേകത വശങ്ങളിലെ ലോബ് ലെവൽ എന്താണെന്ന് അടിസ്ഥാന ഘടകങ്ങളുടെ വാക്കുകളിൽ നമ്മൾ ഇതിനോടകം നിർവചിച്ചതാണ് അത് വശങ്ങളിലുള്ള ലോബിൻ്റെ പരമാവധി വില അല്ലെങ്കിൽ വശങ്ങളിലുള്ള എറ്റവും വലിയ ലോബ് ഹരിക്കണം മെയിൻ ലോബിൻ്റെ പരമാവധി വില ആണ് അതുകൊണ്ട് N കൂടുന്നതിന് അനുസരിച്ച് ഈ SLL കുറയുന്നു N പ്ലസ് 1 സമം 5 ന് നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ SLL എന്നത് മൈനസ് 12dB എന്ന് കിട്ടും N പ്ലസ് 1 സമം 20 ന് SLL മൈനസ് 13dB ആണ് ഇതിലും കൂടിയ വില നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ SLL നമ്മൾ കണ്ടുപിടിച്ച വിലയായ 13 3dB അല്ലെങ്കിൽ ഏകദേശം മൈനസ് 13 5dB എന്നതിലേക്ക് എത്തും അതുകൊണ്ട് ഒരു യൂണിഫോം ശ്രേണി ഉപയോഗിച്ച് വശങ്ങളിലുള്ള ലോബിൻ്റെ ലെവൽ മൈനസ് 13 5dB യേക്കാളും താഴ്ത്താൻ സാധിക്കുകയില്ല അതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തെളിയിക്കുവാൻ കഴിയുന്ന മറ്റൊരു പ്രത്യേകതയാണ് F പൈനെ ആധാരമാക്കി തുല്യതയിൽ ആണ് ഉള്ളത് എന്ന് ഇത് പൈ ആണെങ്കിൽ ഇത് തുല്യമാണെന്ന് നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഈ ബിന്ദു പൈ ആണ് ഇത് തുല്യമാണെന്ന് നിങ്ങൾക്ക് കാണാം അതോടൊപ്പം ഇത് 2 പൈ എന്ന പരിധിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇനി ചോദ്യം എന്താണെന്നുവെച്ചാൽ ഈ പ്രത്യേകതകൾ എല്ലാം താൽപര്യമുണർത്തുന്നവയാണ് പക്ഷേ ഇവയെല്ലാം പോരായ്മകളാണ് കാരണം നിങ്ങൾ നോക്കൂ എനിക്ക് ഒരു യൂണിഫോം ശ്രേണി ഉണ്ടെങ്കിൽ ഞാൻ നിർദ്ദേശിക്കുന്ന വിലയിലേക്ക് എനിക്ക് വശങ്ങളിലുള്ള ലോബുകളെ എത്തിക്കാൻ കഴിയില്ല ചില ഉപയോഗത്തിന് എനിക്കിതു 20dB വേണം എന്ന് വിചാരിക്കുക എനിക്ക് അത് ചെയ്യാൻ കഴിയില്ല റഡാർ മുതലായ വ്യത്യസ്തങ്ങളായ ഉപയോഗങ്ങൾക്ക് നമുക്ക് ഇത് വളരെ ചെറുതായിരിക്കേണ്ടത് ആവശ്യമാണ് അതുപോലെ നിങ്ങൾ ഗേയിൻ നോക്കുക അതുപോലെ പോലെ ലീനിയർ ശ്രേണികളുടെ ഡയറക്ടിവിറ്റി മാറ്റാൻ കഴിയില്ല അത് ശ്രേണിയുടെ നീളത്തിന് വിപരീത അനുപാതത്തിൽ ആയിരിക്കും അത് മാറ്റാൻ കഴിയില്ല അതൊരു സങ്കീർണ്ണമായ പ്രശ്നമാണ് അതുകൊണ്ട് നമുക്ക് വില കുറയ്ക്കാൻ കൂടുതൽ അംഗങ്ങളെ ഉപയോഗിക്കേണ്ടതുണ്ട് പക്ഷേ അപ്പോഴുള്ള പ്രശ്നം എന്നത് ആ വലുപ്പം ലഭ്യമാകണം എന്നില്ല അത്രയും നീളത്തോട് കൂടിയ ശ്രേണിയുള്ള ഒരു ആൻറിന ലഭ്യമാകില്ല അതുപോലെ എനിക്ക് അംഗങ്ങളുടെ എണ്ണം കൂട്ടണമെങ്കിൽ അംഗങ്ങൾ തമ്മിലുള്ള അകലത്തിലും നിയന്ത്രണമുണ്ട് കാരണം അംഗങ്ങൾ തമ്മിലുള്ള അകലം ലാംഡ 0 ഹരിക്കണം 2 എന്നതിനേക്കാളും താഴ്ത്താൻ എനിക്ക് കഴിയില്ല എന്നതാണ് നിയന്ത്രണം കൂടുതൽ അംഗങ്ങളെ എനിക്ക് ചേർക്കണമെങ്കിൽ അത് ഞാൻ മറികടക്കണം തത്ഫലമായി ഞാൻ ഗ്രേറ്റിംഗ് ലോബിനെ ക്ഷണിച്ചുവരുത്തുകയാണ് വീണ്ടും അത് അത്ര നല്ലതല്ല അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് കാണാം നമ്മൾ യൂണിഫോം ശ്രേണി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു ആലേഖകൻ എന്ന രീതിയിൽ നമ്മൾക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ല നമ്മൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പാറ്റേൺ സമന്വയത്തിലൂടെ നമ്മൾക്ക് ഉണ്ടാക്കി എടുക്കാൻ കഴിയുമോ എന്നതാണ് സമന്വയ രീതിലേക്ക് പോകുന്നതിന് പുറകിലുള്ള പ്രചോദനം ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാൾക്ക് ചില ആകർഷകമായ പാറ്റേണുകൾ ആവശ്യമുണ്ട് ഉദാഹരണത്തിന് എനിക്ക് F ഹരിക്കണം u വേണം വളരെയധികം കാര്യങ്ങളിൽ നമുക്ക് F ഹരിക്കണം u ഇതുപോലെ ആയിരിക്കേണ്ടതുണ്ട് ഇത് സെക്ടർ ബീം എന്ന് വിളിക്കപ്പെടുന്നു അതൊരു പ്രത്യേക സെക്ടറിൽ ആണ് എനിക്ക് യൂണിഫോം വേണം അതിനു പുറത്ത് എനിക്ക് വേണ്ട പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് എനിക്ക് അത് വേണം എനിക്ക് വശങ്ങളിലുള്ള ഒരു ലോബുകളും വേണ്ട അല്ലെങ്കിൽ എനിക്ക് വശങ്ങളിലുള്ള ലോബുകൾ വളരെ ചെറുതാകണം ഡയറക്ടിവിറ്റി എന്താകണം എന്നത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാധ്യമാണോ ഒരു യൂണിഫോം ശ്രേണി ഉപയോഗിച്ച് ഈ കാര്യങ്ങൾ സാധ്യമല്ല എല്ലായിപ്പോഴും വശങ്ങളിൽ ലോബുകൾ ഉണ്ടാകും എല്ലായിപ്പോഴും മുഴുവൻ സ്ഥലത്തിലൂടെയും ബീം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മെയിൻ ബീം ആകണമെന്നില്ല പക്ഷേ മറ്റു ബീമുകൾ എല്ലായിപ്പോഴും പ്രസരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ശക്തമായ കൂടിച്ചേരലുകൾ ഉണ്ടായാൽ അത് നന്നായി വളരും ശക്തമായ ഒരു നോയിസ് ആയി അത് പുരോഗമിക്കും അതുകൊണ്ട് ശ്രേണികളുടെ പാറ്റേൺ സമന്വയത്തിലേക്ക് പോകുന്നതിനുള്ള പ്രധാന പ്രചോദനം ഇതാണ് പക്ഷേ അതിലേക്ക് പോകുന്നതിനു മുമ്പ് നിങ്ങൾ എൻറെ മുൻപത്തെ ആൻറിന ശ്രേണികളെ കുറിച്ചുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായ അറേ ഫാക്ടർ F ഹരിക്കണം u നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇനി എന്താണ് u u എന്നത് k0d കോസ് സൈ പ്ലസ് ആൽഫ d എന്നാണ് നമ്മൾ നിർവചിച്ചത് അല്ലെങ്കിൽ ഞാൻ u0 സങ്കലനം ചെയ്യാം അവിടെ കാര്യങ്ങൾക്ക് അനുസരിച്ച് അതായത് ഫേസിലെ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് u0 സമം ആൽഫ d അല്ലെങ്കിൽ ബീറ്റ d ആണ് ഇനി പ്രത്യേക സാഹചര്യത്തിൽ ഇതൊരു സ്ഥിരാംഗം ആണ് നിങ്ങളീ u നോക്കൂ എന്താണ് ഈ u ൻ്റെ ഭൌതികമായ പ്രാധാന്യം സൈയുടെ പ്രാധാന്യം നമ്മൾ കണ്ടത് എന്താണെന്ന് വച്ചാൽ എനിക്കൊരു ശ്രേണിയുടെ അക്ഷം ഉണ്ടെങ്കിൽ ഇതാണ് എൻ്റെ ശ്രേണിയുടെ അക്ഷം എൻറെ നിരീക്ഷണ ബിന്ദു ഇവിടെയാണ് സോളിഡ് ആംഗിൾ എന്നത് നിരീക്ഷണ ബിന്ദുവിൻ്റെ റേഡിയസ് വെക്ടർ ശ്രേണിയുടെ അക്ഷവുമായി ഉണ്ടാക്കുന്നതാണ് സൈ നമ്മുടെ കോൺ സൈ അതാണ് പക്ഷേ ഒരു പ്രത്യേക x ഉം y ഉം ആയി എനിക്കൊരു ശ്രേണിയുടെ അക്ഷം ഉണ്ടെങ്കിൽ തീറ്റ ഫൈ എന്നിവയുടെ വാക്കുകളിൽ ഈ സൈയുടെ വില എന്താണെന്ന് എനിക്കറിയാം പക്ഷേ എന്താണ് u ന്റെ ഭൌതിക പ്രാധാന്യം യഥാർത്ഥത്തിൽ u ന് ഒരു ഭൌതിക പ്രാധാന്യവുമില്ല പക്ഷേ ഈ മുഴുവൻ ശ്രേണിയുടെ സിദ്ധാന്തങ്ങളും നിരൂപണങ്ങളും F ന്റെ വാക്കുകളിൽ മനസ്സിലാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ആ സിങ്ക് രീതിയിലുള്ള ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് ഇത് വളരെ ലളിതമായി മാറി അതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പക്ഷേ എനിക്കൊരു പാറ്റേൺ ശ്രേണി പാറ്റേൺ ഫംഗ്ഷൻ കിട്ടിയതായി വിചാരിക്കുക ഇനിയിപ്പോൾ എനിക്ക് ഇതിൻ്റെ ഭൌതിക പ്രാധാന്യത്തിലേക്ക് തിരിച്ചു പോവാൻ പറ്റുമോ അതിനർത്ഥം എനിക്കത് തീറ്റ പ്രതലത്തിലോ ഫൈ പ്രതലത്തിലോ കാണേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും അതിനർത്ഥം നമുക്ക് സാധാരണയായി ഈ അറേ ഫാക്ടറിൻ്റെ റേഡിയേഷൻ പാറ്റേൺ പോളർ പ്ലോട്ടിലാണ് വേണ്ടത് അതുകൊണ്ട് അത് എങ്ങനെ ചെയ്യും അത് നമ്മൾക്ക് ഇപ്പോൾ കാണാം അതുകൊണ്ട് ഈ അധ്യാപനത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് എനിക്ക് ഏതാണ്ട് ഇതുപോലൊരു F ഉണ്ടെന്ന് സങ്കൽപ്പിക്കുക ഇതാണ് എൻറെ u ഞാൻ മോഡ് എടുക്കുന്നു അതുകൊണ്ട് അവിടെ യാതൊരു നെഗറ്റീവ് പദങ്ങളും ഇല്ല ഞാൻ തോന്നിയതുപോലെ ഇത് വരയ്ക്കുകയാണ് അതുകൊണ്ട് ഇത് ഇവിടെ തുല്യാനുപാതത്തിൽ ആയിരിക്കണം ഇതാണ് എനിക്ക് കിട്ടുന്ന എൻറെ മെയിൻ ബീം എന്ന് വിചാരിക്കുക അതുകൊണ്ട് തീർച്ചയായും ഒരു ബിന്ദുവിൽ ആണ് മെയിൻ ബീം എല്ലായിപ്പോഴും നമുക്ക് കിട്ടുക അവിടെ സൈൻ u പ്ലസ് u0 പൂജ്യം ആയിരിക്കണം അതിനർത്ഥം മൈനസ് u0 എന്ന ബിന്ദുവിൽ ഇത് എല്ലായ്പ്പോഴും ശരിയാണ് വീതി കൂടിയ വശങ്ങളുടെ ശ്രേണി ആണെങ്കിൽ ഈ u0 പൂജ്യമായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ഇതൊരു പൊതുവായ കാര്യമാണ് നമ്മൾ x അക്ഷം ശ്രേണിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് നമ്മൾ നമ്മുടെ നോൺലീനിയർ ശ്രേണിയിൽ ചെയ്തതാണ് ഇനി ആദ്യത്തെ കൃത്യം എന്നത് u സമം k0d കോസ് ഫൈ പ്ലസ് u0 ഇടുക എന്നുള്ളതാണ് ഏതൊരു പ്രത്യേക അക്ഷത്തിൻ്റെ കാര്യത്തിലും ഈ കോസ് ഫൈയെ u സമം k0d കോസ് തീറ്റ എന്നു മാറ്റി എഴുതാം നമുക്ക് പ്ലസ് u0 എന്ന് പറയാം യഥാർത്ഥത്തിൽ എന്താണ് ഇത് ഇതാണ് ട്രാൻസ്ഫോർമേഷൻ റിലേഷൻ അതിനർത്ഥം എനിക്ക് ഇത് തീറ്റയുടെ സ്ഥലത്ത് വേണം നിങ്ങൾ കണ്ടതാണ് ഞാൻ ഇവ എഴുതിയത് കാരണം കോസ് സൈ k0d കോസ് സൈ ആണ് ആ സൈ ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ സൈൻ തീറ്റ കോസ് ഫൈ അല്ലെങ്കിൽ കോസ് തീറ്റ ചിലത് ഇവയിൽ ഏതെങ്കിലുമൊരു ഒരു സൂത്രവാക്യം ആദ്യം നമ്മൾ എടുക്കും അതുകൊണ്ട് ഇതാണ് ഭൌതികമായ കാര്യം നമ്മൾ അവിടെ നിന്ന് നോക്കുകയാണെന്ന് സങ്കൽപ്പിക്കുക നമുക്ക് വേണ്ട കാര്യം സ്ഥിരമായ ഒരു ഫൈ പ്രതലത്തിലാണ് അതുകൊണ്ട് തീറ്റ ഒരു ഭൌതികമായ കാര്യമാണ് അത് ഇലവേഷൻ ആംഗിൾ ആണ് അതിനർത്ഥം നിങ്ങൾ കാണുന്ന അക്ഷത്തിനോട് ചേർന്ന് ഇനി എന്താണ് തീറ്റ തീറ്റ മൈനസ് പൈ മുതൽ പ്ലസ് പൈ വരെ മാറ്റാൻ കഴിയും അങ്ങനെയെങ്കിൽ കാണപ്പെടുന്ന സ്ഥലം എന്തായിരിക്കും കാണപ്പെടുന്ന സ്ഥലം u പ്രതലത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചത് u വേര്യബിൾ കാണപ്പെടുന്ന സ്ഥലം മൈനസ് k0d മുതൽ പ്ലസ് k0d വരെയായിരിക്കും അതായത് ആദ്യം ഈ പാറ്റേണിൽ എനിക്ക് അതിൽ നോക്കേണ്ടതുണ്ട് എൻ്റെ ഏകദേശ സാദ്ധ്യത ഇതാണ് കാരണം ഈ പാറ്റേൺ ആണ് ഞാനിവിടെ വരച്ചത് അതുകൊണ്ട് എനിക്ക് ആദ്യം സ്ഥാനനിർണ്ണയം നടത്തേണ്ടതുണ്ട് അങ്ങനെ ചെയ്താൽ ഈ വില കോഡിനേറ്റ് സിസ്റ്റത്തിൽ യഥാർത്ഥത്തിൽ k0d ആയിരിക്കും തീറ്റ പൂജ്യം മുതൽ പൈ വരെയും ഫൈ പൂജ്യം മുതൽ 2 പൈ വരെയും ആണ് ഇത് പൂജ്യം മുതൽ പൈ വരെ ആണെങ്കിൽ എന്തായിരിക്കും വില തീറ്റ പൂജ്യം ആകുമ്പോൾ u എന്നത് k0d ആകും ഞാനാദ്യം എഴുതട്ടെ തീറ്റ സമം പൂജ്യം u സമം k0d പ്ലസ് u0 ആണ് തീറ്റ സമം പൈ ആകുമ്പോൾ u സമം മൈനസ് k0d പ്ലസ് u0 ആണ് അതുകൊണ്ട് അടിസ്ഥാനപരമായി ഇതാണ് എൻറെ k0d പ്ലസ് u0 എന്ന് എനിക്ക് നിർണയിക്കേണ്ടതുണ്ട് ഇതാണ് എൻറെ മൈനസ് k0d പ്ലസ് u0 ഇതാണ് എനിക്ക് ആവശ്യമുള്ള എൻറെ കാണപ്പെടുന്ന സ്ഥലം ഇനി നിങ്ങൾ ഈ വിവരണത്തിൽ നോക്കുകയാണെങ്കിൽ u സമം k0d കോസ് തീറ്റ പ്ലസ് u0 ആണ് തീറ്റയുടെ പ്രതലത്തിലോ അല്ലെങ്കിൽ തീറ്റയുടെ വാക്കുകളിലോ u മൈനസ് u0 സമം k0d കോസ് തീറ്റ എന്നത് ഒരു വൃത്തത്തിന്റെ സമവാക്യം ആണെന്ന് എനിക്ക് പറയുവാൻ കഴിയുമോ ഇതൊരു നോൺലീനിയർ ബന്ധമാണ് പക്ഷേ ഇതൊരു വൃത്തത്തിന്റെ സമവാക്യമാണ് അടുത്തതായി എനിക്ക് ചെയ്യേണ്ടത് എനിക്കൊരു വൃത്തം വരയ്ക്കേണ്ടതുണ്ട് എവിടെ ഞാൻ വൃത്തം വരയ്ക്കും വൃത്തത്തിൻ്റെ കേന്ദ്രം u0 ൽ ആയിരിക്കും വൃത്തത്തിന്റെ ആരം N പ്ലസ് 1 ഹരിക്കണം 2 ആയിരിക്കും അതുകൊണ്ട് ആരം N പ്ലസ് 1 ഹരിക്കണം 2 എന്നതിനെ ഞാൻ k0d എന്ന് വിളിക്കും ഇതാണ് ആരം ഇതാണ് കേന്ദ്രം u0 അതുകൊണ്ട് ഇതൊരു വൃത്തമാണ് ഈ വൃത്തം കാണപ്പെടുന്ന മുഴുവൻ സ്ഥലത്തും വ്യാപിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാം കാരണം ഞാൻ എടുത്തത് ഈ k0d നിങ്ങൾ കാണുന്നത് അത് മൈനസ് k0d എന്നാണ് ഇത് പ്രദർശിപ്പിച്ചു ഇനി നിങ്ങൾക്ക് അവിടെ ഇടേണ്ട ഏതൊരു ബിന്ദുവിനും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് അത് കാണാം ഇതാണ് u പ്രതലം എന്ന് വിചാരിക്കുക കാണപ്പെടുന്നത് നിങ്ങൾ വരച്ചു ഈ വൃത്തം എല്ലായ്പ്പോഴും കാണപ്പെടുന്ന സ്ഥലത്തെ പരിധിയിലാക്കും യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഇവിടെ വീണ്ടും വരേണ്ടതുണ്ട് എനിക്ക് ഈ ബിന്ദുവിന്റെ വില എന്താണെന്ന് അറിയേണ്ട ആവശ്യം ഉണ്ടെന്നു വിചാരിക്കുക അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇവിടെനിന്നും ഞാനൊരു ലംബമായ രേഖ വരയ്ക്കണം ആ രേഖ ഈ വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവിനെ ഇതുപോലെ മുറിച്ചു കടക്കും വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും മുറിച്ചു കടന്ന ഈ ബിന്ദുവിനെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു രേഖ വരയ്ക്കുക ഈ വൃത്തത്തിൽ നിന്നും ഈ വില എന്താണെന്ന് ഈ അളവിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇനി ഈ രേഖയിൽ നിങ്ങൾ അത് വരയ്ക്കുക അത് ഏകദേശം 2dB ആയിരിക്കും അതുകൊണ്ട് ഇത് ഇവിടെ വരും അതുകൊണ്ട് ഇത് അന്തിമമായ പോളാർ പ്ലോട്ടിലെ ഒരു ബിന്ദുവാണ് അതേ വിധത്തിൽ ഈ ബിന്ദു ഇത് ഇവിടെ വരും എന്ന് സങ്കൽപ്പിക്കുക അതുകൊണ്ട് ഈ ബിന്ദു ഇവിടെയായിരിക്കും ഈ ബിന്ദു ഇവിടെ ആയിരിക്കും എന്ന് നമുക്ക് പറയാം ഇത് കുറച്ചു താഴെ ഏതാണ്ട് ഇവിടെയായിരിക്കും ഞാൻ ഈ ചിത്രം എടുക്കുമ്പോൾ ഇത് ഏതാണ്ട് ഇതുപോലിരിക്കും എന്ന് നിങ്ങൾക്ക് അവസാനം കാണാം അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിർമ്മിച്ച എല്ലാ ബിന്ദുക്കളും അവയുടെയെല്ലാം ഒരു പാത എടുത്താൽ അത് നിങ്ങൾക്ക് ഇയാൾ ചെയ്തതുപോലെ ഒരു പോളാർ പ്ലോട്ട് നൽകും അതുകൊണ്ട് മെയിൻ ബീം u പ്രതലത്തിൽ ഇവിടെ ആണുള്ളത് എന്ന് നിങ്ങൾ കണ്ടു ഇത് കേന്ദ്രത്തിൽ എന്ന പോലെയാണ് കാണപ്പെടുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ ബീം ചെരിവോടെ ഇതു പോലെയാണ് ഇരിക്കുന്നത് ഈ ബിന്ദു തത്തുല്യമായി ഇവിടെയാണ് ഈ മുറിച്ചു കടക്കലും ഇവിടെനിന്ന് നമ്മൾ ഇട്ട വിലയും ആ ബിന്ദുവും ഇവിടെയാണ് ആ ബിന്ദു ഇവിടെയാണ് അതേ വിധത്തിൽ ഈ ബിന്ദു ഇവിടെ ഇടുക പക്ഷേ യഥാർത്ഥത്തിൽ വില ഇവിടെയാണ് അതുകൊണ്ട് ഈ ബിന്ദു അയാൾ ഇങ്ങനെ ബന്ധിപ്പിച്ചു അതുകൊണ്ട് അവസാനമായി ഈ പാതയാണ് പോളാർ പ്ലോട്ട് അതുകൊണ്ട് ഇതാണ് ഉപയോഗിക്കേണ്ട വിദ്യ കാരണം ഈ ട്രാൻസ്ഫോർമേഷൻ യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് ഇവയാണ് ഇതോടുകൂടി ഇപ്പോൾ നിങ്ങൾക്ക് ബീം എവിടെയാണ് എന്ന ഭൌതികമായ ഒരു കാഴ്ചപ്പാട് കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ട് ഇതോടുകൂടി ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ എന്താണ് സമന്വയം എങ്ങനെയാണ് സമന്വയം ചെയ്യേണ്ട നടപടിക്രമങ്ങൾ തുടങ്ങിയവ നമ്മൾ ചർച്ച ചെയ്യും